ഡീകോളനൈസേഷൻ ആൻഡ് ദി ഡിസ്കോഴ്സ് ഓഫ് നാഷണലിസം ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തെക്കുറിച്ചുള്ള മറ്റൊരു ലക്ച്ചറിലേക്ക് സ്വാഗതം ഞാൻ മുമ്പത്തെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം ഇന്ത്യൻ വീക്ഷണ കോണിൽ നിന്നും ചർച്ച ചെയ്യും അതിനു മുമ്പ് നമുക്ക് ചിനുവ അച്ഛബേയുടെ തിങ്സ് ഫാൾ അപ്പാർട്ട് അവസാനമായി ഒന്നൂടെ പരിശോധിക്കാം കാരണം ഈ നോവൽ നമ്മുടെ ഇന്നത്തെ ചർച്ചയുമായി നമുക്ക് ബന്ധപ്പെടുത്താനാവും സാധാരണ ഗതിയിൽ വിദ്യാർത്ഥികൾ കോൺറാടിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നസ്സ് വായിച്ചതിനു ശേഷം തിങ്സ് ഫാൾ അപ്പാർട്ട് വായിക്കുകയാണെങ്കിൽ നമ്മൾ അച്ഛബേയുടെ ഇമേജ് ഓഫ് ആഫ്രിക്കയിൽ ഉള്ള ഹാർട്ട് ഓഫ് ഡാർക്നെസ്സിന്റെ വിമർശനം വായിച്ചതിനു ശേഷം നോവൽ വായിച്ചതു പോലെ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെറിയ ഒരു ആശയക്കുഴപ്പം അവശേഷിക്കുന്നുണ്ട് അച്ഛബേ ഈ നോവലിൽ ആഫ്രിക്കയിലെ കൊളോണിയൽ അടിച്ചമർത്തലിനെതിരെ ആഫ്രിക്കൻ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിമർശിക്കും എന്നുള്ള നമ്മുടെ ഇമേജ് ഓഫ് ആഫ്രിക്ക വായിച്ചതിനു ശേഷമുള്ള പ്രതീക്ഷയിൽ നിന്നാണ് പ്രധാനമായും ഈ ആശയക്കുഴപ്പം വരുന്നത് എന്നാൽ നമ്മുടെ മുമ്പത്തെ ലെക്ച്ചറിൽ ചർച്ച ചെയ്തത് പോലെ നമ്മൾ അച്ഛബേയുടെ നോവൽ വായിക്കുമ്പോൾ നാം കണ്ടെത്തുന്നത് എന്തെന്നാൽ തിങ്സ് ഫാൾ അപ്പാർട്ടിൽ യൂറോപ്യൻ കൊളോണിയൽ അധികാരികളെ ചെറിയ രീതിയിൽ പോലും നിന്ദിക്കുന്നില്ല എന്നതാണ് പസിഫിക്കേഷൻ ഓഫ് ദി പ്രിമിറ്റീവ് ട്രൈബ്സ് ഓഫ് ലോവർ നൈജർ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ജില്ലാ കമ്മീഷണർ പ്രതിനിധാനം ചെയ്ത കൊളോണിയൽ അധികാരികൾക്ക് എതിരെ ഇതിനു വിരുദ്ധമായി അച്ഛബേ ഈ നോവലിൽ കൊളോണിയൽ സമൂഹത്തിനകത്ത് ആദ്യമേ ഉണ്ടായിരുന്ന അപാകതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടത് പോലെ നോവലിൽ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നത് കേന്ദ്ര കഥാപാത്രമായ ഒകൊങ്കോക്ക് സമൂഹത്തെ ഒന്നാകെ ചേർത്തുപിടിക്കാൻ ആകാത്തത് കൊണ്ടാണ് ആ സമൂഹത്തിന്റെ കേന്ദ്രബിന്ദു എന്ന നിലയിൽ അദ്ദേഹം പരാജയപ്പെടുകയും പതറുകയും അവസാനം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അതിനാൽ അച്ചബേയുടെ നോവലിൽ സമൂഹത്തെ തകർക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന കൊളോണിയലിസത്തിന്റെ ബാഹ്യ സമ്മർദ്ദങ്ങളിലല്ല പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മറിച്ച് പ്രീ കൊളോണിയൽ സമൂഹങ്ങളിലാണ് ആഫ്രിക്കൻ സമൂഹത്തിൽ തന്നെയാണ് കൂടാതെ കൊളോണിയലിസത്തിന്റെ സമ്മർദ്ദത്താൽ സമൂഹത്തെ പൂർണ തകർച്ചയിലേക്ക് നയിച്ച പ്രശ്നകരമായ അപാകതകൾ എങ്ങനെ സമൂഹത്തിൽ ആദ്യമേ നിലനിന്നിരുന്നുവെന്നതിനുമാണ് ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് ഇവിടെ ചോദ്യം എന്തുകൊണ്ടാണ് ആഫ്രിക്കയെ കീഴടക്കിയ യൂറോപ്യൻ കോളനിക്കാരുടെ അക്രമാസക്തമായ നുഴഞ്ഞു കയറ്റത്തെ ചിത്രീകരിക്കുന്നതിന് പകരം കൊളോണിയൽ ആഫ്രിക്കൻ സമൂഹത്തെയും അതിന്റെ പരമ്പരാഗത രീതികളുടെയും തെറ്റ് കണ്ടെത്താൻ അച്ഛബേ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നതാണ് ഇതിനുള്ള ഉത്തരം ലഭിക്കുന്നതിന് നമ്മൾ ഓർക്കേണ്ടത് അച്ഛബേ നോവൽ എഴുതുന്നതിനു പിന്നിലെ പ്രധാന കാരണം കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്നെസ് പോലത്തെ യൂറോപ്യൻ നോവലുകളിൽ അടങ്ങിയിട്ടുള്ള കൊളോണിയൽ വീക്ഷണങ്ങളെ എതിർത്തതാകാമെങ്കിലും തിങ്സ് ഫാൾ അപ്പാർട്ട് കോൺറാടിന്റെ ഹാർട്ട് ഓഫ് ഡാർക്നെസ്സിനും അത് ആഫ്രിക്കയെ ചിത്രീകരിച്ച രീതിക്കെതിരെയുള്ള ഉത്തരം മാത്രമല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അച്ഛബേ കേവലം പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് തന്റെ സഹ ആഫ്രിക്കക്കാരുമായും അദ്ദേഹത്തിന്റെ സമകാലിക ചുറ്റുപാടുകളുമായും ഇടപഴകുക കൂടിയായിരുന്നു അതിനാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഒരു തരത്തിൽ തിങ്ങ്സ് ഫാൾ അപ്പാർട്ട് കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്നെസ് പോലുള്ള നോവലുകളിൽ കാണപ്പെടുന്ന ആഫ്രിക്കയുടെ മേലുള്ള കൊളോണിയൽ വ്യവഹാരത്തെ ചെറുക്കാനുള്ള ശ്രമം ആണെങ്കിലും അത് അതിനെക്കുറിച്ച് മാത്രമുള്ളതായിട്ടുള്ളതല്ല അത് തന്റെ സഹ ആഫ്രിക്കക്കാരോടും തന്റെ സമകാലിക ചുറ്റുപാടുകളോടും ഉള്ള ഇടപഴകലായിരുന്നു അപ്പോൾ അച്ഛബേ കോൺറാഡിനുള്ള മറുപടി എഴുതുക മാത്രമല്ല തന്റെ സഹ ആഫ്രിക്കക്കാരുമായി ഇടപഴകുക കൂടിയായിരുന്നു ചെയ്തത് ഈ പുസ്തകം രചിക്കാനിടയായ ആ സമകാലിക ചുറ്റുപാട് എന്തായിരുന്നു തിങ്സ് ഫാൾ അപ്പാർട്ട് എഴുതപ്പെട്ടത് 1950 കളിൽ ആണെന്നുള്ളത് നാമോർക്കണം ആഫ്രിക്കൻ ചരിത്രവുമായി പരിചയമുള്ള ആർക്കും ഇത് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലുടെനീളം യൂറോപ്യൻ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള പ്രക്ഷോഭങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദശകമാണിതെന്ന് മനസ്സിലാകും തീർച്ചയായും 1958 'തിങ്സ് ഫാൾ അപ്പാർട്ട്' പ്രസിദ്ധീകരിച്ച വർഷം നൈജീരിയൻ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രമേയം പാസാക്കിയ വർഷം കൂടിയാണ് മാത്രമല്ല 1960 ഒക്ടോബർ ഒന്നു മുതൽ നൈജീരിയ ഒരു സ്വതന്ത്ര ദേശീയ രാഷ്ട്രമായി മാറും എന്നുള്ള ധാരണയുമുണ്ടായി അതിനാൽ നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ കൊളോണിയൽ ശക്തികൾ ആഫ്രിക്കയിൽ പുതിയ കടന്നുകയറ്റങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിലല്ല തിങ്ങ്സ് ഫാൾ അപ്പാർട്ട് എഴുതിയിരിക്കുന്നത് മറിച്ച് അപകോളനീകരണ പ്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് എഴുതിയത് അപകോളനീകരണത്തിന്റെ ഈ ചുറ്റുപാടിൽ കൊളോണിയൽ ഘടന ഉപേക്ഷിക്കപ്പെടുകയും ആഫ്രിക്കക്കാർ രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികമായും തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ തേടി കൊണ്ടിരുന്നപ്പോഴും 'തിങ്സ് ഫാൾ അപ്പാർട്ട്' പ്രീ കൊളോണിയൽ ആഫ്രിക്കൻ സമൂഹത്തെ മൊത്തത്തിൽ വിലയിരുത്തുകയായിരുന്നു ഒരിക്കൽ കോളനി വൽക്കരിക്കപ്പെട്ട ഭാഗങ്ങളിലെ വിവിധ ഇടങ്ങളിൽ കൊളോണിയൽ ഘടനയെ ഇല്ലാതാക്കുക എന്നത് കൊണ്ട് പലപ്പോഴും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സുവർണ്ണ കാലഘട്ടം എന്ന രീതിയിൽ കരുതിയിരുന്ന പ്രീ കൊളോണിയൽ ഭൂതകാലത്തിലേക്ക് തിരികെ മടങ്ങാനുള്ള ആഗ്രഹവും കൂടെയുണ്ടായിരുന്നു യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ ദുഷിച്ച സ്വാധീനങ്ങളുടെ കീഴിൽ ആകുന്നതിനു മുമ്പ് തന്നെ ആഫ്രിക്കൻ സമൂഹത്തെ ബാധിച്ചിരുന്ന നിരവധി അപാകതകളും വൈരുദ്ധ്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് ഭൂതകാലത്തിലേക്ക് മടങ്ങുവാനുള്ള ഇത്തരം നിരർത്ഥകമായ ആഗ്രഹങ്ങൾക്കെതിരെ തിങ്സ് ഫാൾ അപ്പാർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ നോവലിൽ കാര്യങ്ങൾ കൃത്യമായി തകിടംമറിയുന്നതിന്റെ പ്രധാന കാരണം പരമ്പരാഗത ആഫ്രിക്കൻ സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദുവിന് അവരെ ഒന്നിച്ചു നിർത്താൻ കഴിയാത്തതുകൊണ്ടാണ് നോവൽ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ പ്രീ കൊളോണിയൽ ഭൂതകാലത്തെ ദുർബലപ്പെടുത്തിയിരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിക്കാതെ അതിലേക്ക് മടങ്ങിപ്പോകാൻ എളുപ്പമാർഗം ഇല്ല എന്നതാണ് ഈ പ്രതിസന്ധി കേവലം ബാഹ്യമല്ലെന്നും പ്രീ കൊളോണിയൽ സമൂഹത്തിനകത്ത് പലതും തെറ്റായിട്ടുണ്ടെന്നതുമാണ് അച്ഛബേ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഇന്നത്തെ ഈ ചർച്ച 'തിങ്സ് ഫാൾ അപ്പാർട്ടിൽ' നിന്ന് ആരംഭിക്കാൻ കാരണം പോസ്റ്റ് കൊളോണിയലിസം മേഖലയിലെ പുതിയ ആശങ്കകളെ ഇത് പരിചയപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ ഇതുവരെയുള്ള വിവിധ സാഹിത്യ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ നാം കോളനിവൽക്കരണ പ്രക്രിയയെക്കുറിച്ചും കൊളോണിയൽ ഡിസ്കോഴ്സ് അനാലിസിസിനെക്കുറിച്ചുമെല്ലാം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തിങ്സ് ഫാൾ അപ്പാർട്ടിലെന്ന പോലെ പോസ്റ്റ് കൊളോണിയലിസത്തിന്റെ ബാനറിൽ ഇന്ന് വായിക്കപ്പെടുന്ന മിക്ക സാഹിത്യങ്ങളും അപകോളനീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ലക്ച്ചറിൽ നമ്മുടെ പ്രധാന ആശങ്ക ഇതു തന്നെയായിരിക്കും നമ്മൾ ഇന്ത്യൻ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് അപകോളനീകരണ പ്രക്രിയയെക്കുറിച്ച് നോക്കാൻ പോകുകയാണ് ഞാൻ ഇന്ത്യൻ വീക്ഷണകോൺ എന്നുപറയുമ്പോൾ ആരുടെ വീക്ഷണം എന്നതും അല്ലെങ്കിൽ ഇന്ത്യൻ വീക്ഷണം എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്ന വീക്ഷണം എന്താണ് എന്നതും ചോദിക്കേണ്ടത് പ്രധാനമാണ് നമ്മുടെ മുമ്പത്തെ ലക്ച്ചറിൽ ആഫ്രിക്കൻ വീക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒരാൾക്ക് ഇതേ ചോദ്യം ചോദിക്കാമായിരുന്നു പക്ഷേ ഇന്ത്യൻ സാഹചര്യം നമുക്ക് കൂടുതൽ സുപരിചിതമാണ് എന്നതിനാൽ എനിക്ക് തോന്നുന്നു താൽക്കാലികമായി ഒന്ന് നിർത്താനും ഈ പ്രധാനപ്പെട്ട ചോദ്യത്തെ കുറിച്ച് നോക്കാനും ഇതിന്റെ ശാഖകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമുള്ള പറ്റിയ സമയമാണിത് എന്ന് ഞാൻ കരുതുന്നു ആഫ്രിക്കൻ അല്ലെങ്കിൽ ഇന്ത്യൻ പോലുള്ള യോഗ്യതകളും നാമവിശേഷണങ്ങളും കൃത്യമായി ഒന്നിനെ അർത്ഥമാക്കുന്നതിന് അനുയോജ്യമല്ല എന്നതാണ് കാരണം ഈ യോഗ്യതകൾക്കകത്ത് തന്നെ വിശാലമായ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട് അതിനാൽ നമുക്ക് ഇന്ത്യൻ എന്നുള്ള നാമവിശേഷണം കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ശ്രമിക്കാം ഇത് പ്രധാനമാണ് കാരണം അടുത്ത കുറച്ച് ലക്ച്ചറുകളിൽ നമ്മൾ ഈ ഒരു യോഗ്യത ഉപയോഗിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് എന്താണ് ഇന്ത്യൻ എന്നതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ പക്ഷം പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ലക്ച്ചറുകളുടെ പശ്ചാത്തലത്തിൽ എന്താണ് ഇന്ത്യൻ എന്നതു കൊണ്ട് അർത്ഥമാക്കുന്നത് അപകോളനീകരണത്തിൽ ഞാൻ ഇന്ത്യൻ കാഴ്ചപ്പാട് എന്ന് ഉപയോഗിക്കുമ്പോൾ ഞാൻ പ്രാഥമികമായി അർത്ഥമാക്കുന്നത് ഇന്ത്യൻ മധ്യവർഗത്തിന്റെ കാഴ്ചപ്പാടാണ് പക്ഷേ വീണ്ടും മധ്യവർഗ്ഗം എന്നത് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത കാര്യങ്ങൾ അർത്ഥമാക്കുന്ന ഒരു പദമാണ് അതിനാൽ മധ്യവർഗ്ഗം എന്ന പദത്തെ കുറിച്ചുള്ള എന്റെ ധാരണ സുമിത് സർക്കാരിന്റെ മോഡേൺ ഇന്ത്യ 1885 to 1947 എന്ന ചരിത്രപഠനത്തിൽ അധിഷ്ഠിതമാണെന്നത് ഞാൻ ഇവിടെ വ്യക്തമാക്കട്ടെ ഈ ഒരു പുസ്തകത്തിൽ സർക്കാർ മധ്യവർഗത്തെ നിർവചിക്കുന്നുണ്ട് ആ നിർവചനത്തെ ഇനിയുള്ള പോയിന്റുകൾ ആയിട്ട് തരംതിരിക്കാൻ ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട് സുമിത്ത് സർക്കാർ തന്റെ പുസ്തകത്തിൽ മധ്യവർഗ്ഗത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗമായി ഉയർന്നു വരാൻ തുടങ്ങിയ പുതിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടം ആളുകൾ ആയിരുന്നു മധ്യവർഗ്ഗമെന്ന് അദ്ദേഹം പറയുന്നു ഈ പുതിയ മധ്യവർഗത്തിന്റെ സാമൂഹിക വേരുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പടിഞ്ഞാറിൽ മധ്യവർഗത്തിന് രൂപം നൽകിയ ബൂർഷ്വാസികളിൽ നിന്ന് സ്വയം പ്രചോദനമുൾക്കൊണ്ടതാണ് ഈ വർഗ്ഗമെങ്കിലും പടിഞ്ഞാറിലെ ബൂർഷകളുടെ ഭൌതിക അടിത്തറ ആയിരുന്ന സംരംഭക വാണിജ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായും വിട്ടു നിന്നിരുന്നുവെന്ന് സർക്കാർ നിരീക്ഷിക്കുന്നു അവർ വാണിജ്യ മേഖലയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ തൊഴിൽ കണക്കിലെടുത്ത് എങ്ങനെയാണ് അവർക്ക് അവരെ സ്വയം തരംതിരിക്കാൻ ആവുക അവരെല്ലാം സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടവരായിരുന്നു അല്ലെങ്കിൽ നിയമം വിദ്യാഭ്യാസം മാധ്യമപ്രവർത്തനം വൈദ്യം തുടങ്ങിയ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മധ്യവർഗത്തെ നിങ്ങൾക്ക് കാണാനാകും അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവരെ ഈ സർക്കാർ ജോലികൾക്കും ഈ പറഞ്ഞ തൊഴിലുകൾക്കും അനുയോജ്യരാക്കി ഇവരുടെ സാമൂഹിക സാമ്പത്തിക ചിത്രം പൂർത്തിയാക്കുന്നതിന് കുറച്ചു കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് പുതുതായി ഉത്ഭവിച്ച ഈ മധ്യവർഗ്ഗത്തിന് ഭൂമിയുമായും ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ വരുമാനത്തിലെ ഒരു ഭാഗം ചെറിയ ഭൂവുടമകൾ അല്ലെങ്കിൽ ജന്മികൾ എന്ന രീതിയിൽ അവർ വാങ്ങിച്ച ഭൂമിയുടെ വാടകയിൽ നിന്നുള്ളതായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇന്ത്യൻ മധ്യവർഗവും വാണിജ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണാൻ കഴിഞ്ഞത് ബോംബെയിൽ മാത്രമായിരിക്കാം എന്നാൽ കൊളോണിയൽ ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ വൻകിട സംരംഭങ്ങളെല്ലാം നേരിട്ട് നിയന്ത്രിച്ചിരുന്നത് യൂറോപ്പ്യൻക്കാരായിരുന്നു എന്നത് ഓർക്കണം അതു കൊണ്ടുതന്നെ കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാരും വൻകിട ബിസിനസുകളിൽ ഏർപ്പെട്ടിരുന്നില്ല അപകോളനീകരണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ കാഴ്ചപ്പാട് ചർച്ച ചെയ്യുന്നതിനായി ജന സമൂഹത്തിലെ ഈ ഒരു പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇന്ത്യയിൽ അപകോളനീകരണം എന്ന ആശയം കൊണ്ടു വന്ന ആദ്യത്തെ വിഭാഗമല്ല അവരെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ വാസ്തവത്തിൽ ഇന്ത്യൻ മധ്യവർഗ്ഗം ചിത്രത്തിലേക്ക് വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഗോത്ര സമൂഹവും അല്ലെങ്കിൽ കർഷകരെ പോലെയുള്ള മറ്റു സാമൂഹിക വിഭാഗങ്ങൾ ഇന്ത്യയിലെ കൊളോണിയൽ ഭരണത്തിനെതിരെ പതിവായി പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു സുമിത് സർക്കാരിന്റെ മറ്റൊരു പുസ്തകമാണ് പോപ്പുലർ മൂവ്മെന്റ്സ് ആൻഡ് മിഡിൽ ക്ലാസ്സ് ലീഡർഷിപ് ഇൻ ലേറ്റ് കൊളോണിയൽ ഇന്ത്യ "Popular" Movements and "Middle Class" Leadership in Late Colonial India മധ്യവർഗ്ഗം ഉത്ഭവിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നതും മധ്യവർഗ്ഗത്തിന് പ്രാധാന്യം ലഭിച്ച് തുടങ്ങുന്ന സമയത്ത് പോലും തുടർന്ന് കൊണ്ടിരുന്നതുമായ കൊളോണിയൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഇത് വളരെ മനോഹരമായി നിരീക്ഷിക്കുന്നു ഇതിനെ കുറിച്ച് പറഞ്ഞെങ്കിലും അപകൊളനീകരണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ കാഴ്ചപ്പാട് പഠിക്കാനായി ഞാൻ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് മധ്യവർഗ്ഗത്തിൽ തന്നെയാണ് അതിന് പ്രധാനമായും ഈ രണ്ട് കാരണങ്ങളാണുള്ളത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ദേശീയ വ്യവഹാരമായി അംഗീകരിക്കപ്പെട്ട കൊളോണിയൽ വിരുദ്ധ വ്യവഹാരത്തിന് രൂപം നൽകാൻ കഴിഞ്ഞത് മധ്യവർഗ്ഗത്തിനാണെന്നതാണ് ആദ്യത്തെ കാരണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൊളോണിയൽ ഭരണത്തിനെതിരെ വാദിക്കുന്നതിലൂടെ മധ്യവർഗ്ഗത്തിന് മുഴുവൻ രാജ്യത്തിന്റെയും പ്രതിനിധിയായി സ്വയം സമർത്ഥിക്കാൻ കഴിയും മാത്രമല്ല അവർക്ക് ഇന്ത്യൻ ജനസമൂഹങ്ങളിലെ മറ്റെല്ലാ വിഭാഗങ്ങളെയും മധ്യവർഗ്ഗം നേരിട്ട് പ്രതിനിധീകരിക്കുന്നുവെന്നും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ഇത് മനസ്സിലാക്കുന്നതിനായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ഒരു പരീക്ഷണം നടത്താൻ കഴിയും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച മധ്യവർഗ്ഗത്തിന്റെ നേതൃത്വത്തിലുള്ള കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിനിടെ നേതാവായി ഉയർന്നു വന്ന ഏതെങ്കിലും പ്രധാന വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽക്കുള്ള കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഏതെങ്കിലും ഒരു നേതാവിനെ ഇനി നിങ്ങൾ മനസ്സിൽ കരുതിയ ആൾ മധ്യവർഗ്ഗത്തിൽ പെട്ട ആളാവാനാണ് സാധ്യതകൾ ഉദാഹരണത്തിന് നിങ്ങൾ ബാല ഗംഗാദര തിലകിനെ കുറിച്ചോ ബിപിൻ ചന്ദ്ര പാലിനെ കുറിച്ചോ സി ആർ ദാസിനെ C Das കുറിച്ചോ എം കെ ഗാന്ധിയെ M Gandhi കുറിച്ചോ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചോ സുഭാഷ് ചന്ദ്ര ബോസിനെ കുറിച്ചോ ആണ് ചിന്തിച്ചതെങ്കിൽ അവരെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരും ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഉൾപ്പെട്ടവരോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും വാസ്തവത്തിൽ ഞാൻ ഇപ്പോൾ വായിച്ച പേരുകളുടെ ഈ നിര നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുകയാണെങ്കിൽ അവരിൽ ഭൂരിഭാഗം പേരും യഥാർത്ഥത്തിൽ അഭിഭാഷകരാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ കൊളോണിയൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിൽ ഉള്ള അവരുടെ ഇടപെടലുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരെ ദേശീയ നേതാക്കളായും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിന്റെയും മുഴുവൻ ഇന്ത്യൻ സമൂഹങ്ങളുടെയും ശബ്ദമായ നേതാക്കൾ എന്ന രീതിയിലും അവരെ നോക്കി കാണും എന്നാൽ അവരെ അഭിഭാഷകരുടെ മാത്രം ശബ്ദമായോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മധ്യവർഗ്ഗത്തിന്റെ മാത്രം ശബ്ദമായോ കാണുന്നില്ല അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധികളാണോ അല്ലേ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ് ഈ സംവാദത്തിന് ലഭ്യമായ സാഹിത്യങ്ങൾ വളരെ ഏറെയുമാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ മധ്യവർഗ്ഗത്തിന്റെ ഈ പ്രതിനിധികൾക്ക് കൊളോണിയലിസത്തിനെതിരായി ഒരു വ്യവഹാരം രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് അത് രാജ്യത്തിന്റെ വ്യവഹാരമാണെന്ന രീതിയിൽ സ്ഥാപിക്കപ്പെട്ട വ്യവഹാരമായിരുന്നു അതിനാൽ അപകോളനീകരണത്തിലുള്ള ഇന്ത്യൻ കാഴ്ചപ്പാട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മധ്യവർഗ്ഗം സൃഷ്ടിച്ചതും കൊളോണിയൽ വിരുദ്ധ ദേശീയ വ്യവഹാരത്തിലൂടെ അവതരിപ്പിച്ചതുമായ കാഴ്ചപ്പാടാണ് ചർച്ച ചെയ്യുന്നത് കാരണം ഈ മധ്യവർഗ്ഗ വ്യവഹാരത്തിലാണ് കൊളോണിയൽ ഭരണത്തിനെതിരെ സംസാരിക്കുന്ന ഒരു രാഷ്ട്രം എന്ന ആശയം നാം ആദ്യമായി കാണുന്നത് മധ്യവർഗ്ഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള രണ്ടാമത്തെ കാരണം പോസ്റ്റ് കൊളോണിയൽ സാഹിത്യം എന്ന വിഭാഗത്തിൽ പഠിക്കുന്ന ഇന്ത്യൻ സാഹിത്യങ്ങൾ പ്രധാനമായും മധ്യവർഗ്ഗത്തിന്റെ ഉൽപന്നമായി തുടരുന്നത് കൊണ്ടാണ് മധ്യവർഗ്ഗത്തിന്റെ സ്വാധീനശക്തിയെക്കുറിച്ചും മധ്യവർഗ്ഗത്തിന്റെ ഇടുങ്ങിയ പരിധിക്കപ്പുറത്തേക്ക് പോകാനുള്ള പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾക്കകത്ത് നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ചും അവരുടെ ആശങ്കകളെ കുറിച്ചും നമ്മൾ സബാൽട്ടനിറ്റി ചർച്ച ചെയ്യുമ്പോൾ പരിശോധിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ നമുക്ക് കൊളോണിയൽ വ്യവഹാരത്തെ ചെറുക്കാനായി മധ്യവർഗ്ഗം സൃഷ്ടിച്ചെടുത്ത ദേശീയതയുടെ വ്യവഹാരത്തിലേക്ക് കടക്കാം മധ്യവർഗ്ഗ ദേശീയവാദ വ്യവഹാരത്തിന്റെ ആരംഭം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ വ്യവഹാരം വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ കോളനി വൽക്കരിക്കപ്പെട്ടത് ഇനി എങ്ങനെ ഇന്ത്യക്ക് വീണ്ടും സ്വതന്ത്രമാവാം അതിനാൽ മധ്യവർഗ്ഗം കൊളോണിയൽ വിരുദ്ധ ദേശീയതയുടെ വ്യവഹാരത്തിൽ സൃഷ്ടിച്ചെടുത്ത വളരെ ലളിതവും വളരെ അടിസ്ഥാനപരവുമായ എന്നാൽ പ്രധാനപ്പെട്ടതുമായ ചോദ്യങ്ങളാണ് ഇവ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും വില്യം ജോൺസിനെ പോലുള്ള എച് ടി കോൾബ്രൂക് H Colebrooke നഥാനിയേൽ ഹൽഹെഡ് എന്നിവരെ പോലുള്ള ഈ പേരുകൾ ഞാനെന്റെ മുമ്പത്തെ ലക്ച്ചറിൽ ആദ്യത്തെ ലെക്ച്ചറുകളിലൊന്നിൽ പരാമർശിച്ചിട്ടുള്ളതാണ് യൂറോപ്യൻ ഓറിയന്റലിസ്റ്റുകളുടെ സൃഷ്ടികൾക്ക് നന്ദി ഗ്രീക്ക് ലാറ്റിൻ തുടങ്ങിയ യൂറോപ്യൻ ക്ലാസിക്കൽ ഭാഷകളുമായി ഇന്ത്യയിലെ സംസ്കൃതഭാഷ വളരെ ശക്തമായ അടുപ്പം പുലർത്തുന്നുണ്ടെന്ന് ആദ്യമേ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് യൂറോപ്യൻക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലാസിക്കൽ യൂറോപ്പിനും ക്ലാസിക്കൽ ഇന്ത്യക്കുമിടയിൽ ഒരു തരം നാഗരിക ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന ധാരണയിലേക്ക് നയിച്ചു അതിനാൽ കൊളോണിയൽ വ്യവഹാരത്തിൽ ആഫ്രിക്കയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയെ കിരാതൻമാരുടെയും പ്രാകൃതന്മാരുടെയും നാടായി തള്ളിക്കളഞ്ഞിരുന്നില്ല ഈ ഒരു തരം അടുപ്പം കാരണം ഇന്ത്യയെ തള്ളിക്കളഞ്ഞില്ല ഗ്രീക്കുകാരുടെ മഹത്തായ ക്ലാസിക്കൽ യുഗവുമായി ബന്ധമുള്ള ഒന്നിനെ എങ്ങനെ കിരാതൻമാരുടെ നാടായി തള്ളിക്കളയാനാകും ഇതിനുപകരം ഇന്ത്യ ഒരു കാലത്ത് പരിഷ്കൃത രാജ്യമായിരുന്നു എന്നും ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ അധഃപതിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കിനടത്താൻ പക്വതയുള്ളവരും പ്രബുദ്ധരുമായ കൊളോണിയൽ അധികാരികളുടെ മാർഗ്ഗോപദേശം ആവശ്യമാണ് എന്ന രീതിയിലാണ് കൊളോണിയൽ വാദം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കൊളോണിയലിസം ഒരു പരിഷ്കരണ ദൌത്യം ആണെന്ന ആശയത്തിലേക്ക് വീണ്ടുമെത്തിയത് നിങ്ങൾക്ക് കാണാനാകുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ആഫ്രിക്കയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ ഒരു കാലത്ത് പരിഷ്കൃത രാജ്യമായി കണക്കാക്കപ്പെട്ടിരുന്നു പരിഷ്കൃത രാജ്യമായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും യൂറോപ്യൻ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ പരിഷ്കാരത്തിന്റെ തോത് വളരെ കുറഞ്ഞിരുന്നു യൂറോപ്പുകാർ പറയാറുണ്ടായിരുന്ന ന്യായീകരണം ഇതായിരുന്നു നോക്കൂ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളെ പരിഷ്കരിക്കാനാണ് പുനർ പരിഷ്കരണത്തിനു വേണ്ടിയാണ് ഇന്ത്യൻസ് എന്നുള്ള വാക്ക് മികച്ചതാക്കുന്നതിനാണ് വന്നിട്ടുള്ളത് എന്നെല്ലാമായിരുന്നു ഇനി ഇതിന്റെയെല്ലാം പ്രാരംഭ ഘട്ടത്തിൽ മധ്യവർഗ്ഗ ദേശീയവാദ വ്യവഹാരം ഈ സുവർണ്ണ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആശയവും അധപതനത്തിന്റെ ആഖ്യാനവുമെല്ലാം മടികൂടാതെ സ്വീകരിച്ചു കാരണം ഇന്ത്യ എന്തുകൊണ്ട് ആദ്യമേ കോളനിവൽക്കരിക്കപ്പെട്ടുവെന്ന് വിശദീകരിക്കാൻ ഇത് സഹായിച്ചു അതു കൊണ്ടുതന്നെ മധ്യവർഗ്ഗ ദേശീയവാദികൾ കഴിഞ്ഞ കാലത്തെ സുവർണ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ചില ഗുണനിലവാരങ്ങൾ വ്യക്തമായി ഇല്ലാതായി പോകുന്നു എന്നും അതുകൊണ്ടു തന്നെയാണ് പുറം നാട്ടുകാർക്ക് ഇവിടെ വരാനും കോളനിവൽക്കരിക്കാൻ കഴിയുന്നതെന്നും വാദിച്ചു ഇതുവരെ മധ്യവർഗ്ഗ ദേശീയവാദ വ്യവഹാരത്തിന്റെ ആദ്യ രൂപവും കൊളോണിയൽ വ്യവഹാരവും ഏറെക്കുറെ യോജിപ്പിലായിരുന്നു ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരിങ്ങനെയാവാൻ തുടങ്ങിയത് കൊളോണിയൽ വ്യവഹാരവും മധ്യവർഗ്ഗ ദേശീയവാദ വ്യവഹാരവും വഴിമാറാൻ തുടങ്ങിയത് അധഃപതനത്തിലേക്ക് നയിച്ച പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കെട്ടിച്ചമച്ചതായ ആ സുവർണ്ണ ഭൂതകാലത്തിലേക്ക് മടങ്ങിവരാൻ സാധ്യമാണെന്ന് ആദ്യകാല ദേശീയവാദികൾ വാദിച്ച സമയം മുതലാണ് അതിനാൽ നിങ്ങൾക്കിവിടെ കാണാനാകുന്നതുപോലെ അപകോളനീകരണത്തിലേക്കുള്ള ഏതൊരു മുന്നേറ്റത്തിലും പ്രീ കൊളോണിയൽ ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കാനുള്ള സ്വാഭാവിക പ്രവണതയും കെട്ടിച്ചമച്ച ആ ഭൂതകാലത്തിലേക്ക് മടങ്ങിവരാനുള്ള ആഗ്രഹവും നിലനിൽക്കുന്നുണ്ട് ചിനുവ അച്ഛബേ പ്രീ കൊളോണിയൽ ആഫ്രിക്കയെ കുറിച്ച് തന്റെ 'തിങ്സ് ഫാൾ അപ്പാർട്ടിൽ' എഴുതുമ്പോൾ അദ്ദേഹം നിലവിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി കെട്ടിച്ചമച്ചതായ ഭൂതകാലത്തേക്ക് മടങ്ങാനുള്ള നിഷ്പ്രയോജനമായ ശ്രമങ്ങൾക്കെതിരെ കൃത്യമായ ഒരു വാദം ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു അടുത്ത കുറച്ച് ലക്ച്ചറുകളിൽ നമുക്ക് കാണാനാകുന്നതുപോലെ കൊളോണിയലിസത്തിൽ നിന്ന് ഏറെ മാറിയുള്ള ഏതൊരു പ്രസ്ഥാനവും സുവർണ്ണ ഭൂതകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിനെ അർത്ഥമാക്കണമെന്ന ബോധ്യം പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഗാന്ധിയൻ കാലഘട്ടം വരെയുള്ള മധ്യവർഗ്ഗ ദേശീയവാദ വ്യവഹാരത്തെ ശക്തമായി അടിവരയിട്ടു എന്നിരുന്നാലും നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഒരു സുവർണ്ണ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആശയം സ്ഥിരമായി നിലനിന്നിരുന്നുവെങ്കിലും വ്യത്യസ്ത മധ്യവർഗ്ഗ ബുദ്ധിജീവികൾ അതിനെ വ്യത്യസ്തമായിട്ടാണ് ആവിഷ്കരിച്ചത് അതിനാൽ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യൻ ദേശീയവാദ വ്യവഹാരത്തിന്റെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ സുവർണ്ണകാലഘട്ടം എന്താണെന്നതിനെ കുറിച്ചും അത് അവസാനിച്ച സമയത്തെ കുറിച്ചും അതിന്റെ അന്ത്യത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുമെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും അതിനാൽ സുവർണ്ണ കാലഘട്ടത്തെക്കുറിച്ച് ദേശീയ വ്യവഹാരത്തിൽ ഒരുപാട് വ്യത്യസ്ത നിരീക്ഷണങ്ങൾ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ ദേശീയ വ്യവഹാരം പഠിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇന്ത്യക്കാർ എങ്ങനെ ഇപ്പോഴത്തെ അധപതിച്ച അവസ്ഥയിൽ നിന്ന് സ്വയം കരകയറണമെന്നതിനെ കുറിച്ചും സുവർണകാലം എങ്ങനെ വീണ്ടെടുക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാൻ കഴിയും ഈ വ്യത്യാസങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ സാഹിത്യഗ്രന്ഥങ്ങൾ ഓരോന്നായി പഠിക്കുമ്പോൾ പരിശോധിക്കാം എന്നാൽ ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള അടിസ്ഥാന സൈക്ലിക്കൽ പാറ്റേൺ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഈ പാറ്റേൺ സുവർണ്ണ ഭൂതകാലത്തിൽ ആരംഭിച്ച് അതിന്റെ അധഃപതനത്തിലേക്ക് നീങ്ങി പിന്നീട് സുവർണകാലം വീണ്ടെടുക്കാനുള്ള ഭാവി സാധ്യതകളിലൂടെ പഴയതിലേക്ക് തിരിയുകയും ചെയ്യുന്നു ഈയൊരു പാറ്റേൺ ദേശീയ വ്യവഹാരത്തിന്റെ വളർച്ചയിലുടനീളം ഏറെക്കുറെ സ്ഥിരമായി തുടർന്നു പോന്നു നമ്മുടെ അടുത്ത ലക്ച്ചറിൽ ചില നിർദ്ദിഷ്ട സാഹിത്യഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഈ സൈക്ലിക്കൽ പാറ്റേൺ കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്യും